ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ക്ലാസിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ആരാധ്ന മാലിക് ഈ കോഴ്സ് മനസിലാകുന്നതിന് ഞാൻ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ സംഘടിത തൊഴിലാളികളെ കുറിച്ച് സംസാരിക്കും നമുക്ക് അതിലേക്ക് കടക്കാം ചില സ്രോതസ്സുകൾ ഇവയെല്ലാമാണ് ഗിൽമോർ വില്യംസ് Gilmore Williams ഗോമസ് മെജിയ ബാൽകിൻ കാർഡി Gomez Mejia Balkin Cardy എന്നിവരുടെ പുസ്തകം ഇന്ന് നമ്മൾ സംഘടിത തൊഴിലാളികളെ കുറിച്ച് സംസാരിക്കും ഇനി എന്താണ് സംഘടിത തൊഴിലാളികൾ സംഘടിത തൊഴിലാളി എന്നാൽ ഒരു സ്ഥാപനത്തിലെ തൊഴിലാളികൾ ഒന്നിച്ച് കൂട്ടായി അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുകയും അതിന്റെ അംഗങ്ങളുടെ ക്ഷേമം ഉന്നത മാനേജുമെന്റുമായുള്ള വിലപേശലിലൂടെയും ചർച്ചകളിലൂടെയും ഉറപ്പാക്കാൻ ശ്രമിക്കുന്നതാണ് യൂണിയനുകൾ സംഘടിത തൊഴിലാളികളുടെ രൂപങ്ങളാണ് വേതനം ജോലി സമയം തൊഴിൽ സാഹചര്യങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ മാനേജ്മെന്റിന് മുന്നിൽ ജീവനക്കാരുടെ താൽപ്പര്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു സംഘടനയാണ് യൂണിയൻ യൂണിയനുകൾ സംസാരിക്കുന്ന ചില പ്രധാന വിഷയങ്ങൾ ഇവയാണ് ഒരു യൂണിയൻ ഈ പ്രശ്നങ്ങൾ സംസാരിക്കുന്നില്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ അവർ അഭിസംബോധന ചെയ്യുന്നില്ലെങ്കിൽ അതിനർത്ഥം അവർ ചില ഞാൻ അർത്ഥമാക്കുന്നത് ഇത് അവർക്ക് വളരെ വളരെ അത്യാവശ്യമാണ് അതിനാൽ ആളുകൾ ഒത്തുചേരുന്നതിനും യൂണിയനുകൾ രൂപീകരിക്കുന്നതിനുമുള്ള പ്രധാന കാരണം ഇതാണ് യൂണിയൻ കുടിശ്ശിക എന്നത് ഒരു യൂണിയനിൽ അംഗമാകാനും ഭരണം ഉറപ്പാക്കാനും ചെറിയ ചിലവുകൾക്കും യൂണിയനുകൾക്ക് മീറ്റിംഗുകൾ സംഘടിപ്പിക്കുന്നതിനുമായി നിങ്ങൾ അടയ്ക്കുന്ന ചെറിയ ഫീസ് ആണ് അതിനാൽ അവർ നൽകുന്ന സേവനങ്ങൾക്ക് നിങ്ങൾ ഒരു തുക അടയ്ക്കുന്നു യൂണിയൻ കുടിശ്ശിക പിരിച്ചെടുക്കുന്നു ഇന്ത്യയിലെ എല്ലാ യൂണിയനുകൾക്കും ഇത് ബാധകമാണോ എന്ന് എനിക്ക് ഉറപ്പില്ല എന്നാൽ ഇത് ചെയുന്ന കാര്യമാണ് അതിനാൽ ഒരു യൂണിയൻ അതിന്റെ അംഗങ്ങളിൽ നിന്ന് കുറച്ച് ഫീസ് ശേഖരിക്കുന്നതിൽ വിചിത്രമായ ഒന്നുമില്ല ജീവനക്കാർ എപ്പോഴാണ് യൂണിയനുകളിൽ ചേരുന്നത് ജീവനക്കാർക്ക് അവരുടെ ജോലിയുടെ ചില വശങ്ങളിൽ അതൃപ്തിയുണ്ടാകുമ്പോൾ അവർ യൂണിയനുകളിൽ ചേരുന്നു വ്യക്തമായും ഒരു ജോലി അഥവാ ഒരു സ്ഥാപനം അതിന്റെ ജീവനക്കാരെ പരിപാലിക്കുന്നുവെങ്കിൽ ചില അടിസ്ഥാന ആവശ്യങ്ങൾക്കായി ജീവനക്കാർ ഒരുമിച്ചുകൂടുകയും കൂട്ടായി പോയി മാനേജ്മെന്റിനോട് അഭ്യർത്ഥികേണ്ട ആവശ്യമില്ല അത് അവർ അതൃപ്തരാകുമ്പോൾ മാത്രമാണ് അവർക്ക് വേണ്ട പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോളാണ് ആളുകൾ ഒത്തുകൂടാൻ തീരുമാനിക്കുന്നത് കൂടാതെ അവരുടെ തൊട്ടു മുകളിലുള്ള മേലുദ്യോഗസ്ഥരും അവർക്ക് മുകളിലുള്ള ആളുകളും അവരുടെ ശബ്ദം കേൾക്കാതെ വരുമ്പോൾ അവർ യൂണിയനുകളിൽ ചേരുന്നു അവർ ആഗ്രഹിക്കുന്ന ആവശ്യങ്ങൾ അന്വേഷിക്കാൻ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഒരു കൂട്ടായ സംഘടനയായി പോകുന്നു ശരി അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അവർക്ക് ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ മാനേജ്മെന്റിൽ അവർക്ക് സ്വാധീനമില്ല എന്ന് അവർക്ക് തോന്നുമ്പോൾ ആളുകൾ യൂണിയനുകളിൽ ചേരുന്നു ഇപ്പോൾ ആളുകൾ അസംതൃപ്തരാണെങ്കിൽ സംഘടനയിൽ എന്തെങ്കിലും മാറ്റം വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അതിനാൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കാം പക്ഷേ ചില കാരണങ്ങളാൽ ഈ ആവശ്യങ്ങളിൽ ഉയർത്തുന്ന അവരുടെ ശബ്ദത്തിന് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല അപ്പോഴാണ് ജീവനക്കാർ ഒത്തുകൂടുകയും അവർ ആശയവിനിമയത്തിലൂടെ അവരുടെ ആവശ്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും നടപടിയെടുപ്പിക്കുകയും ചെയ്യുക മാറ്റത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിലവിലുള്ള അവസ്ഥയിൽ നിന്നുള്ള ഒരു മാറ്റത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അതിനാൽ മാറ്റങ്ങൾ വരുത്തുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ മാനേജ്മെന്റുമായി സ്വാധീനമില്ലാത്ത ജീവനക്കാർ ഉണ്ടാകുമ്പോൾ അതായത് എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ നിങ്ങളുടെ ബോസിനോട് അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ബോസിനോട് അവധി അഭ്യർത്ഥിക്കുന്നു കുറച്ച് ഫ്ളക്സ്ബിലിറ്റിക്ക് നിങ്ങൾ നിങ്ങളുടെ ബോസിനോട് അഭ്യർത്ഥിക്കുന്നു ബോസ് പറയുന്നു അതെ എനിക്ക് മനസ്സിലായി പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം സിസ്റ്റം അങ്ങനെയാണ് എന്നാൽ ഇപ്പോൾ ഒരു കൂട്ടായ സംഘടനയായി ജീവനക്കാർ ഒരുമിച്ച് പോകുമ്പോൾ മാനേജ്മെന്റ് അവരുടെ വാക്കുകൾ കേൾക്കാൻ നിർബന്ധിതരാകുന്നു അവരെ പരിപാലിക്കാനും ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനും മാനേജ്മെന്റ് നിർബന്ധിതരാകുന്നു തങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി യൂണിയൻവൽക്കരണം കാണുമ്പോൾ ജീവനക്കാർ യൂണിയനുകളിൽ ചേരുന്നു ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സമാന പ്രശ്നങ്ങൾ ഉള്ളവർ കൂടുതലാണെങ്കിൽ നമുക്ക് അവ തരം തിരിക്കാം കൂടാതെ ഈ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കപ്പെടണമെന്ന് അവർ ആഗ്രഹിക്കുന്നു കൂടാതെ ആളുകൾ അവരുടെ അഭ്യർത്ഥനകളിൽ പ്രവർത്തിക്കുന്നില്ല ആളുകൾ അവരുടെ ആവശ്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നില്ല അപ്പോഴാണ് അവർ യൂണിയനുകളിൽ പോയി ചേരുന്നത് അപ്പോഴാണ് അവർ ഒരു കൂട്ടായ ബോഡി ആയി പോകുന്നത് കൂടാതെ അപ്പോഴാണ് അവർ അത് അവസാന ആശ്രയമായി കാണുന്നത് സംഘടനയ്ക്കെതിരെ പ്രവർത്തിക്കുന്നതോ മത്സരിക്കുന്നതോ ആയ ഒരു ഗ്രൂപ്പിൽ ചേരാൻ ആരും ആഗ്രഹിക്കുന്നില്ല അവർക്ക് അവരുടെ ശബ്ദം നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോൾ മാത്രമാണ് അല്ലെങ്കിൽ അവരെ ആരും കേൾക്കുന്നില്ലെന്ന് തോന്നുമ്പോൾ മാത്രമാണ് അവർ പോയി യൂണിയനുകളിൽ ചേരാൻ തീരുമാനിക്കുന്നത് വ്യാവസായിക ബന്ധങ്ങളും യൂണിയനുകളും എന്നിവയുമായി ബന്ധപ്പെട്ട ചില ഇന്ത്യൻ നിയമങ്ങൾ ഈ പേജിൽ കാണാം അതിനാൽ നമുക്ക് ഇവിടെ നോക്കാം ഞാൻ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനാൽ നമുക്ക് വ്യവസായ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ നിയമങ്ങളുണ്ട് സ്ഥാപനത്തിലെ ജീവനക്കാർ ജീവനക്കാരുടെ സംഘടനകൾ ഓർഗനൈസേഷൻ അഡ്മിനിസ്ട്രേറ്റീവ് സംഘടനകൾ എന്നിവ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് സംസാരിക്കുന്ന വിവിധ നിയമങ്ങൾ ഇന്ത്യയിൽ നമുക്കുണ്ട് നമ്മൾക്ക് ട്രേഡ് യൂണിയൻസ് ആക്റ്റ് ട്രേഡ് യൂണിയൻ ഭേദഗതികൾ എന്നിവ ഉണ്ട് തുടർന്ന് ഈ നിയമത്തിൽ 2001 ൽ വരുത്തിയ ചില ഭേദഗതികൾ ഉണ്ട് ഈ രേഖ ഇന്ത്യൻ ഗവൺമെന്റിന്റെ തൊഴിൽ മന്ത്രാലയത്തിന്റെ the Ministry of Labor and Employment Government of India ഔദ്യോഗിക വെബ്സൈറ്റിൽ കാണാം വീണ്ടും നമ്മൾക്ക് ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെന്റ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ആക്ടും നിയമങ്ങളും ഉണ്ട് നമ്മൾക്ക് വ്യാവസായിക തർക്ക നിയമം കൂടാതെ നമ്മൾക്ക് പ്ലാന്റേഷൻ ലേബർ ആക്ട് ഉണ്ട് അതിനാൽ ഈ ജീവനക്കാരുടെ സംഘടനകൾ ജീവനക്കാരുടെ ഈ കൂട്ടായ സംഘടനകൾ ഓർഗനൈസേഷന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സംഘടനകൾ എന്നിവ തമ്മിലുള്ള ബന്ധം എങ്ങനെ നിലനിർത്തണം എന്നതിനെ നിയന്ത്രിക്കുന്ന ചില സ്റ്റാൻഡേർഡ് ചട്ടങ്ങളും നയങ്ങളും അല്ലെങ്കിൽ നിയമങ്ങളും ഇവയാണ് തൊഴിൽ ബന്ധങ്ങൾ ഈ പദം ഓർഗനൈസേഷന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയും ഓർഗനൈസേഷന്റെ തൊഴിലാളികളുടെ ബോഡിയും തമ്മിലുള്ള മൊത്തത്തിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു അതിനാൽ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട ജോലികൾ ചെയ്യുന്ന ആളുകളും നിയമങ്ങൾ നടപ്പിലാക്കുന്നത് ഉറപ്പാക്കുന്ന ആളുകളും ജോലികൾ ശരിയായ രീതിയിൽ നിയമങ്ങൾ പാലിച്ച് ചെയ്തുവെന്ന് ഉറപ്പാക്കുന്നു ഒരു ഓർഗനൈസേഷനിൽ നിയമങ്ങളും നയങ്ങളും നടപ്പിലാക്കുന്നത് നോക്കുന്ന ആളുകളാണ് അഡ്മിനിസ്ട്രേറ്റർമാർ അതിനാൽ അവർ അവരുടെ ജോലികൾ ശ്രദ്ധിക്കുന്നു അതിനാൽ ഇതാണ് തൊഴിൽ ബന്ധങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത് അതായത് നമ്മൾ സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ ജോലി ചെയ്യുന്ന ആളുകളും ഒപ്പം ജോലി ചെയ്യുന്ന ആളുകൾ അവരുടെ ജോലി സംഘടനയുടെ നിയമങ്ങളുടെയും നയങ്ങളുടെയും അതിരുകൾക്കുള്ളിൽ നിന്നുകൊണ്ടും രാജ്യത്തിന്റെ നിയമവും അനുസരിച്ചാണ് ചെയുന്നതെന്ന് ഉറപ്പാക്കുന്ന ആളുകളും ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് അപ്പോൾ തൊഴിൽ ബന്ധങ്ങൾ നോക്കുന്നതിനുള്ള ചില വഴികൾ നമ്മൾക്ക് തൊഴിൽ ബന്ധ തന്ത്രമുണ്ട് ഒരു യൂണിയനുമായി ഇടപെടുന്നതിനുള്ള കമ്പനിയുടെ മാനേജ്മെന്റിന്റെ മൊത്തത്തിലുള്ള പദ്ധതിയാണ് ലേബർ റിലേഷൻസ് തന്ത്രം അതിനാൽ സംഘടനകൾ അവരുടെ തന്ത്രങ്ങളുമായി വരുന്നു അവർ അവരുടെ ആശയവുമായി വരുന്നു ജീവനക്കാരുടെ കൂട്ടായ ബോഡികളുമായി ഇടപെടുന്നതിനുള്ള മാർഗങ്ങളുമായി അവർ വരുന്നു ഇത് ലേബർ റിലേഷൻസ് തന്ത്രം എന്നാണ് അറിയപ്പെടുന്നത് ഒരു സംഘടന എന്ന നിലയിൽ യൂണിയനുകളെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് നമുക്ക് അവരെ അവിടെ വേണോ വേണ്ടേ നമുക്ക് അവരെ വേണമെങ്കിൽ അവരിൽ നിന്ന് എത്ര ഇൻപുട്ട് വേണം ഇതെല്ലാം ലേബർ റിലേഷൻസ് തന്ത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാനേജ്മെന്റ് യൂണിയനെ അതിന്റെ ജീവനക്കാരന്റെ നിയമാനുസൃത പ്രതിനിധിയായി കാണാൻ തിരഞ്ഞെടുക്കുകയും ജോലിസ്ഥലത്തെ നിയമങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള ഉചിതമായ സംവിധാനമെന്ന നിലയിൽ കൂട്ടായ വിലപേശൽ അംഗീകരിക്കുകയും ചെയ്യുന്നതിനെ യൂണിയൻ സ്വീകാര്യത തന്ത്രം എന്ന് വിളിക്കുന്നു അതിനാൽ സംഘടനയിൽ യൂണിയനുകൾ ഉണ്ടാകുമെന്ന് നമ്മൾ അനുമാനിക്കുന്നു ഓർഗനൈസേഷന്റെ രൂപകൽപ്പനയുടെ ഭാഗമായി നമ്മൾ അവരെ എത്രമാത്രം അംഗീകരിക്കുന്നു എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് നമ്മൾക്ക് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ഉണ്ടാകും സംഘടനയുടെ ക്ഷേമം നോക്കുന്ന യൂണിയനുകളും നമ്മൾക്കുണ്ടാകും അതിനാൽ നമ്മളുടെ തന്ത്രം യൂണിയനുകളെ നിർദ്ദിഷ്ട സംഘടനയുടെ അവിഭാജ്യ ഘടകമായി അംഗീകരിക്കുക എന്നതാണ് തുടർന്ന് യൂണിയൻ സ്വീകാര്യത യൂണിയനുകളെ അംഗീകരിക്കുന്നതിനുള്ള വിശ്വാസം എന്നിവയെ ചുറ്റിപ്പറ്റിയാണ് നമ്മൾ നമ്മളുടെ മാനവ വിഭവശേഷി തന്ത്രം നിർമ്മിക്കുന്നത് അതിനാൽ നമ്മൾ പറയുന്നു ജീവനക്കാരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ബോഡി ഇതിനകം തന്നെ നിലവിലുണ്ടെങ്കിൽ കൂടാതെ അത് ജീവനക്കാരുടെ വീക്ഷണകോണിൽ നിന്ന് കാര്യങ്ങളെ നോക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവനക്കാരുടെ ക്ഷേമം ഉറപ്പാക്കാൻ നമ്മൾ ചെയ്യേണ്ടത് അവരുടെ പിന്തുണയിൽ നമ്മൾക്ക് എപ്പോഴും ആശ്രയിക്കാം അതിനാൽ നമ്മൾ യൂണിയനെ സമന്വയിപ്പിക്കുകയും അതിനെ സംഘടനയുടെ അവിഭാജ്യ ഘടകമാക്കുകയും ചെയ്യുന്നു സംഘടന എടുക്കുന്ന തീരുമാനങ്ങളെയും ഒരു ഘട്ടത്തിൽ ചോദ്യം ചെയ്യാൻ അവർക്ക് കഴിയുമെന്ന് നന്നായി അറിയാം വീണ്ടും ഞാൻ നിങ്ങൾക്ക് സ്ലൈഡുകൾ തരാം നിങ്ങൾ സ്ലൈഡുകളിൽ ഇവിടെ എഴുതിയിരിക്കുന്നതെല്ലാം വായിക്കാൻ ശ്രമിക്കേണ്ടതില്ല പക്ഷേ ഇത് ഒരു യൂണിയൻ സ്വീകാര്യത തന്ത്രത്തിന്റെ ഒരു ഉദാഹരണമാണ് ഒരു നയത്തിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു പ്രമാണത്തിന്റെ രൂപത്തിലോ എങ്ങനെയാണ് സംഘടനയുടെ തന്ത്രം എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് സമയമുള്ളപ്പോഴെല്ലാം ഇത് വായിക്കാം ഇത് ഗോമസ് മെജിയ ബാൽകിൻ കാർഡി Gomez Mejia Balkin Cardy എന്നിവർ എഴുതിയ ഈ പുസ്തകത്തിൽ നിന്ന് നേരിട്ട് എടുത്തതാണ് കൂടാതെ ഒരു യൂണിയൻ നിലവിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു എന്ന് സ്ഥാപനത്തിലെ ജീവനക്കാരെ അറിയിക്കുന്നതിനുള്ള വളരെ നല്ല മാർഗമാണിത് കൂടാതെ നമ്മളെ കൊണ്ട് കഴിയുന്നതെല്ലാം അത് നമ്മളുടെ ഓർഗനൈസേഷന്റെ ഭാഗമാകുമെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യും അതിനാൽ നിങ്ങൾക്കറിയാമോ ഈ സാഹചര്യത്തിൽ ഒരുതരം പരസ്പര പിന്തുണയുണ്ട് നിങ്ങൾക്ക് സ്ലൈഡുകൾ ലഭിക്കുമ്പോഴെല്ലാം ഈ തന്ത്രത്തിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുക പക്ഷേ നിങ്ങളുടെ സ്ക്രീനുകൾ താൽക്കാലികമായി നിർത്തി സ്ക്രീനിൽ വായിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല ഇത് ഒരു ചെറിയ ഫോണ്ട് ആണ് മുഴുവൻ കാര്യങ്ങളും ഒരു സ്ലൈഡിൽ ഒരിടത്ത് ലഭിക്കാൻ ഞാൻ ആഗ്രഹിച്ചു അതിനാൽ ഇതുപോലൊന്ന് നിലവിലുണ്ടെന്ന് നിങ്ങൾക്കറിയാൻ സാധിക്കും യൂണിയൻ ഒഴിവാക്കൽ തന്ത്രമാണ് ലേബർ റിലേഷൻസ് തന്ത്രത്തിന്റെ മറ്റൊരു വശം നമ്മൾക്കറിയാം യൂണിയൻ സ്വീകാര്യത എന്നതിനർത്ഥം സംഘടനാ സജ്ജീകരണത്തിന്റെ അവിഭാജ്യ ഘടകമായി നമ്മൾ യൂണിയനുകളെ അംഗീകരിക്കുന്നു എന്നാണ് യൂണിയൻ നമ്മളുടെ ജീവനക്കാരിൽ വിഘാതകരമായ സ്വാധീനം ചെലുത്തുമെന്ന് നമ്മൾ ഭയപ്പെടുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ തൊഴിലാളികളുടെ നിയന്ത്രണം ഒരു യൂണിയന് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുമെന്ന് ഭയപ്പെടുമ്പോൾ യൂണിയൻ ഒഴിവാക്കൽ തന്ത്രം നമ്മൾ തിരഞ്ഞെടുക്കുന്നു അതിനാൽ നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് നമ്മൾക്ക് ഉറപ്പില്ല അല്ലെങ്കിൽ നമ്മളുടെ തൊഴിലാളികൾ നമ്മൾ പറയുന്നത് അത്രമാത്രം ശ്രദ്ധിക്കുന്നില്ല എന്ന് നമ്മൾക്ക് തോന്നുമ്പോൾ കൂടാതെ ഒരു യൂണിയൻ രൂപീകരിച്ചാൽ ഒരു പണിമുടക്ക് ഉണ്ടാകാം അവർക്ക് സംഘടനയ്ക്കെതിരെ പോകാം അവർക്ക് സംഘടനയിൽ അനാവശ്യ സമ്മർദ്ദം ചെലുത്താൻ കഴിയും കാരണം നമ്മൾ സ്വയം വേണ്ടത്ര ശക്തരല്ല ആ സമയത്താണ് ഒരു സംഘടന യൂണിയനുകളെ മൊത്തത്തിൽ ഒഴിവാക്കാൻ തീരുമാനിക്കുന്നത് പക്ഷേ അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ് കാരണം തത്വത്തിൽ ഒരു യൂണിയൻ ജീവനക്കാരന്റെ താൽപ്പര്യങ്ങൾ സഹായിക്കുന്നു തത്വത്തിൽ ഒരു യൂണിയൻ സംഘടനയ്ക്കെതിരെ പ്രവർത്തിക്കുന്നില്ല ഓർഗനൈസേഷനായി പ്രവർത്തിക്കുന്ന ജീവനക്കാരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിലൂടെ ജീവനക്കാർ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തെ പിന്തുണയ്ക്കുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം അതിനാൽ അത് ഒരു ചാമ്പ്യനായി പ്രവർത്തിക്കുന്നു സംഘടന ജീവനക്കാരുടെ താൽപ്പര്യങ്ങൾക്കായി ഒരു ചാമ്പ്യനായി പ്രവർത്തിക്കുന്നു പക്ഷേ അതിന്റെ പ്രധാന ലക്ഷ്യം സംഘടനയുമായി പോരാടുകയല്ല അതിന്റെ പ്രധാന ലക്ഷ്യം സ്ഥാപനത്തിനുള്ളിൽ ജീവനക്കാരുടെ സന്തുലിതാവസ്ഥ ജീവനക്കാരോടുള്ള ന്യായമായ പെരുമാറ്റം ഉറപ്പാക്കുക എന്നതാണ് ഒരു യൂണിയൻ ഒഴിവാക്കൽ തന്ത്രത്തെക്കുറിച്ച് നമ്മൾ തീരുമാനിക്കുമ്പോൾ നമുക്ക് അത് രണ്ട് തരത്തിൽ ചെയ്യാം ഒന്നുകിൽ യൂണിയൻ സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ നമുക്കത് ചെയ്യാം അല്ലെങ്കിൽ യൂണിയൻ അടിച്ചമർത്തലിലൂടെ ചെയ്യാം യൂണിയൻ ഒഴിവാക്കൽ തന്ത്രത്തിലേക്കുള്ള യൂണിയൻ സബ്സ്റ്റിറ്റ്യൂഷൻ സമീപനം സജീവമായ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് സമീപനം എന്നും അറിയപ്പെടുന്നു ഒരു യൂണിയൻ സബ്സ്റ്റിറ്റ്യൂഷൻ തന്ത്രത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്നു ശരി യൂണിയനുകളെ നമ്മൾ ഭയപ്പെടുന്നു പക്ഷേ നമ്മൾ അവരെ ഭയപ്പെടുന്നു എന്ന് നമ്മൾ ഒരിക്കലും യൂണിയനുകളോട് പറയില്ല ഒരു യൂണിയൻ ഉണ്ടാകുന്നതിന്റെ പ്രാഥമിക ലക്ഷ്യം ജീവനക്കാരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് നമ്മളുടെ നയങ്ങൾക്കുള്ളിൽ നമ്മൾ അത് നിർമ്മിക്കുന്നത് നമ്മളുടെ നിലവിലുള്ള ചട്ടക്കൂടിനുള്ളിൽ സംവിധാനങ്ങളും നടപടിക്രമങ്ങളും നമ്മൾ നിർമ്മിക്കുന്നത് ജീവനക്കാരെ സാധ്യമായത്രയും പരിപാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനാണ് അതിനാൽ ഒരു യൂണിയനിൽ ചേരേണ്ടതിന്റെ ആവശ്യകത അവർക്ക് തോന്നുന്നില്ല ഒരു യൂണിയൻ രൂപീകരിക്കേണ്ടതിന്റെ ആവശ്യകത പോലും അവർക്ക് തോന്നുന്നില്ല കാരണം സംഘടന അവരോട് പെരുമാറുന്നതിൽ അവർ വളരെ സന്തുഷ്ടരാണ് ഈ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ അവർ അസംതൃപ്തരാകുമ്പോൾ യൂണിയനിൽ ചേരാൻ ആളുകൾ തീരുമാനിക്കുന്നു ഒരു സംഘടന എന്ന നിലയിൽ നമ്മളുടെ ജീവനക്കാരുടെ ക്ഷേമം ഉറപ്പാക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ് നമ്മൾ അവർക്ക് അസംതൃപ്തരാകാനുള്ള അവസരം നൽകുന്നില്ല അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മികച്ച രീതിയിൽ നമ്മൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു ഒരു യൂണിയനിൽ ചേരേണ്ടതിന്റെ ആവശ്യകത അവർക്ക് തോന്നുന്നില്ല ഒരു യൂണിയൻ രൂപീകരിക്കേണ്ടതിന്റെ ആവശ്യകത അവർക്ക് തോന്നുന്നില്ല യൂണിയൻ ഒഴിവാക്കൽ തന്ത്രത്തിലേക്കുള്ള യൂണിയൻ സബ്സ്റ്റിറ്റ്യൂഷൻ സമീപനം എന്നാണ് ഇതിനെ വിളിക്കുന്നത് മാനേജുമെന്റ് ജീവനക്കാരുടെ ആവശ്യങ്ങളോട് പ്രതികരിക്കുന്നു അത് വഴി യൂണിയൻവൽക്കരണത്തിനുള്ള പ്രോത്സാഹനം ഇല്ലാതാക്കുന്നു എന്തിനാണ് ഒരാൾ മറ്റൊരു സംഘടനയിൽ ചേരുന്നത് ഇപ്പോൾ ഇത് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ചില പ്രതിനിധി നയങ്ങൾ നമ്മൾക്ക് തൊഴിൽ സുരക്ഷാ നയങ്ങളുണ്ട് നമ്മൾ പറയുന്നു ശരി നിങ്ങളുടെ ജോലി സംരക്ഷിക്കപ്പെടും നമ്മളുടെ ജീവനക്കാർക്ക് അവരുടെ ജോലിയെക്കുറിച്ചുള്ള ഈ സുരക്ഷിതത്വബോധം നമ്മൾ നൽകുന്നു ഹാഫ്ടൈം ഓഫ് പണം നൽകിയുള്ള അവധികൾ ഫ്ലെക്സി സമയം എന്നിവ ലഭിക്കുന്നതിന് നമ്മൾ ഇത് സിസ്റ്റങ്ങളിൽ നിർമ്മിക്കുന്നു അതിനാൽ ജോലി നഷ്ടപ്പെടുമെന്ന് ആളുകൾക്ക് തോന്നുന്നില്ല അവർ ഭയപ്പെടേണ്ടതില്ല ഒരു യഥാർത്ഥ അടിയന്തര സാഹചര്യമുണ്ടായാൽ അവർക്ക് കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരുപക്ഷേ ഒരുപാട് നാളത്തേക്ക് ജോലിക്ക് വരാൻ കഴിയുന്നില്ല നമ്മൾ അത് നയ ചട്ടക്കൂടിലേക്ക് നിർമ്മിക്കുന്നു നമ്മൾ അത് നമ്മളുടെ സിസ്റ്റങ്ങളിലേക്ക് അവരുടെ ജോലികൾ ഉറപ്പാക്കപ്പെടുന്ന രീതിയിലേക്ക് നമ്മൾ നിർമ്മിക്കുന്നു കൂടാതെ ഒരു യൂണിയൻ രൂപീകരിക്കാതിരിക്കാൻ ആളുകൾക്ക് അത് ഒരു വലിയ പ്രോത്സാഹനമാണ് പിന്നെ മറ്റൊരു മാർഗം ജീവനക്കാരുടെ മേൽനോട്ടം വഹിക്കുന്നതിന് സ്ഥാപനത്തിന് പുറത്തുള്ള ആളുകളെ വയ്ക്കുന്നതിന് പകരം ഉള്ളിൽ നിന്ന് ആരെയെങ്കിലും അതിലെത്താൻ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് നമ്മൾക്ക് ഉള്ളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന പ്രമോഷന്റെ സംവിധാനമുണ്ട് ജീവനക്കാരുടെ കൂട്ടം അവിടെയുണ്ട് അവർക്ക് മുകളിലുള്ള സ്ഥാനം തുറക്കുമ്പോൾ ഇവരിൽ ഒരാളായ ഏറ്റവും അർഹതയുള്ള സ്ഥാനാർത്ഥിക്ക് സ്ഥാനക്കയറ്റം നൽകുകയും ആ ഉന്നതസ്ഥാനത്ത് ഇടുകയും ചെയ്യുന്നു അതിനാൽ ഒരു യൂണിയനിൽ ചേരാൻ ആളുകൾ ആഗ്രഹിക്കുന്നില്ല വേണ്ടത്ര കഠിനാധ്വാനം ചെയ്താൽ സ്ഥാപനത്തിലെ മുതിർന്ന ജീവനക്കാരനാകാൻ എല്ലാവർക്കും തുല്യ അവസരം ലഭിക്കുമെന്ന് അവർക്കറിയാം തുടർന്ന് നമ്മൾക്ക് ലാഭ പങ്കിടലും ജീവനക്കാരുടെ ഓഹരി ഉടമസ്ഥാവകാശ പദ്ധതികളും ഉണ്ട് എന്താണ് ലാഭം പങ്കിടൽ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചു ഓർഗനൈസേഷൻ അത് ചെയ്യുന്നതിന്റെ ഒരു ഭാഗം ജീവനക്കാരുമായി പങ്കിടുന്നു സ്റ്റോക്ക് ഉടമസ്ഥാവകാശ പദ്ധതികൾക്ക് ഒരു അപകടസാധ്യതയുണ്ട് ജീവനക്കാരുടെ ഓഹരി ഉടമസ്ഥാവകാശ പദ്ധതികളിൽ അപകടസാധ്യതയുണ്ട് ഓഹരികൾ കുറയുകയാണെങ്കിൽ അവയുടെ മൂല്യം കുറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പണം നഷ്ടപ്പെടും പക്ഷേ സ്റ്റോക്കുകളുടെ മൂല്യം ഉയരുകയും നിങ്ങളുടെ ഓഹരികൾ വിൽക്കാൻ തീരുമാനിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ധാരാളം പണം സമ്പാദിക്കാം അതിനാൽ ഇത് സംഘടനയുടെ ഭാഗമാകുന്നത് പോലെയാണ് സ്ഥാപനത്തിന്റെ വളരെ ചെറിയൊരു ഭാഗം നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ളതാണ് അതിനാൽ ഇത് നിങ്ങളുടേതാണ് അതിനാൽ നിങ്ങൾ സ്ഥാപനത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷനെ വിജയിപ്പിക്കാൻ നിങ്ങൾ വളരെ കഠിനാധ്വാനം ചെയ്യുന്നു കാരണം നിങ്ങൾക്ക് ലാഭത്തിന്റെ ഒരു ഭാഗം ലഭിക്കുന്നു ജനറേറ്റ് ചെയ്യുന്ന ലാഭത്തിന്റെ ഒരു ഭാഗം നിങ്ങൾക്ക് ലഭിക്കുന്നു കാരണം സംഘടന ധാരാളം പണം സമ്പാദിക്കുന്നു അതിനാൽ ഒരു യൂണിയനിൽ ചേരാതിരിക്കാനുള്ള ആളുകൾക്കുള്ള മറ്റൊരു പ്രോത്സാഹനമാണിത് എല്ലാം ന്യായമായ കളിയാണ് കൂടാതെ അവർ ഇത്രയധികം ലാഭം കാണുന്നു നിങ്ങൾക്കറിയാമോ ഇതാണ് സ്ഥാപനം ഉണ്ടാക്കിയ ലാഭം ഇത് എന്റെ ഷെയർ ആണ് കൂടാതെ ഞാൻ എന്റെ ന്യായമായ വിഹിതം നേടാൻ പോകുന്നു അതിനാൽ ഒരു യൂണിയനിൽ ചേരേണ്ടതിന്റെ ആവശ്യകത അവർക്ക് തോന്നുന്നില്ല സംഘടന അവരോട് എങ്ങനെ പെരുമാറുന്നു എന്നതിൽ അവർക്ക് സംതൃപ്തി തോന്നുന്നു തീരുമാനങ്ങളിലേക്ക് ജീവനക്കാരുടെ ഇൻപുട്ട് അഭ്യർത്ഥിക്കുന്നത് ഉയർന്ന ഇടപെടൽ നടത്തുന്ന മാനേജ്മെന്റ് രീതികൾ ആണ് പലപ്പോഴും ജീവനക്കാർ എന്ന നിലയിൽ ചില ഉയർന്ന തലത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നു എന്ന് നമ്മൾക്ക് തോന്നുന്നു പലപ്പോഴും പല സ്ഥാപനങ്ങളിലും ജീവനക്കാർക്ക് അങ്ങനെ തോന്നുന്നു എന്നിരുന്നാലും യൂണിയൻവൽക്കരണം ഒഴിവാക്കുന്നതിന് തീരുമാനങ്ങളിൽ ജീവനക്കാരുടെ അഭിപ്രായങ്ങൾ അഭ്യർത്ഥിക്കുക എന്നത് എല്ലായ്പ്പോഴും നല്ല ആശയമാണ് പ്രത്യേകിച്ച് അവരെ ബാധിക്കാൻ പോകുന്ന തീരുമാനങ്ങളിൽ തുടർന്ന് ഈ ഫീഡ്ബാക്ക് ഉൾപ്പെടുത്തുകയും തീരുമാനമെടുക്കൽ പ്രക്രിയയുടെ ഭാഗമാക്കുകയും ചെയ്യുക അവരെ ബാധിക്കുന്ന കാര്യങ്ങൾ രൂപീകരിക്കുന്നതിലും തീരുമാനങ്ങൾ എടുക്കുന്നതിലും അവരുടെ ഇൻപുട്ടുകൾ ഉൾപ്പെടുത്തുക അവരുടെ ഫീഡ്ബാക്ക് സജീവമായി ആത്മാർത്ഥമായി പരിഗണിക്കപ്പെടുന്നു എന്ന് ജീവനക്കാർ അറിയുമ്പോൾ അപ്പോൾ അവർക്ക് ബഹുമാനം തോന്നുന്നു അവർ ഓർഗനൈസേഷനെ വിലമതിക്കുന്നു കൂടാതെ ഒരു യൂണിയനിൽ ചേരാൻ അവർ ആഗ്രഹിക്കുന്നില്ല അവർക്ക് അതിന്റെ ആവശ്യം തോന്നുന്നില്ല ഒരു യൂണിയൻ കരാറിന് കീഴിൽ തൊഴിലാളികൾക്ക് ഉണ്ടായിരിക്കുന്ന അതേ ശാക്തീകരണബോധം നൽകാൻ ശ്രമിക്കുന്ന ഒന്നാണ് തുറന്ന വാതിൽ നയങ്ങളും പരാതി നടപടികളും ഒരു സ്ഥാപനം ജീവനക്കാരുടെ ക്ഷേമം നോക്കുകയാണെങ്കിൽ എനിക്കറിയാം ഞാൻ ഇത് സ്വയം ആവർത്തിക്കുകയാണ് പക്ഷേ ഞാൻ ഇത് വീണ്ടും വീണ്ടും പറയുന്നു എപ്പോൾ വേണമെങ്കിലും അവർക്ക് ഒരു പരാതിയുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും തങ്ങളോട് നീതി പുലർത്തിയിട്ടില്ലെന്ന് തോന്നുമ്പോൾ അവർക്ക് അവരെ സഹായിക്കാൻ കഴിയുന്ന ഏത് സ്ഥാനത്തുള്ളവരെയും ബന്ധപ്പെടാം എന്ന് സംഘടന ഉറപ്പുനൽകുന്നുവെങ്കിൽ അപ്പോൾ അവർക്ക് ഒരു യൂണിയനിൽ ചേരേണ്ട ആവശ്യം തോന്നുന്നില്ല കാരണം അവർക്കായി യൂണിയൻ ചെയ്യുന്ന കാര്യമാണിത് ഒരു തുറന്ന വാതിൽ നയമുണ്ട് ആർക്കും ആരുടെ ഓഫീസിലും ഏത് സമയത്തും കയറി വരാം ജീവനക്കാർക്ക് അങ്ങനെ തോന്നുന്നുവെങ്കിൽ ഒരു യൂണിയനിൽ ചേരേണ്ട ആവശ്യം അവർക്ക് തോന്നുന്നില്ല അവരുടെ ഓർഗനൈസേഷനു പുറത്തുള്ള മറ്റൊരു സംഘടനയിലേക്ക് പോകേണ്ടതിന്റെ ആവശ്യകത അവർക്കില്ല കാരണം അവർക്കറിയാം സംഘടനയുടെ കുടുംബത്തിന്റെ ഭാഗമായി അവരെ സംഘടന അംഗീകരിക്കുന്നു നിങ്ങൾ ഒരു വലിയ കുടുംബത്തിന്റെ ഭാഗമാണ് അതാണ് സംഘടന കൂടാതെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുമായി സംസാരിക്കാം കൂടാതെ നിങ്ങളെ കേൾക്കാൻ അവർ എപ്പോഴും തയ്യാറാണ് നിങ്ങൾക്ക് ആ ഉറപ്പ് ലഭിക്കുമ്പോൾ ഒരു യൂണിയനിൽ ചേരാനും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല യൂണിയനുകൾ ഒഴിവാക്കുന്നതിനുള്ള മറ്റൊരു തന്ത്രം യൂണിയൻ അടിച്ചമർത്തൽ സമീപനമാണ് മാനേജ്മെന്റ് യൂണിയൻ അടിച്ചമർത്തൽ സമീപനം ഉപയോഗിക്കുന്നത് എന്ത് വിലകൊടുത്തും യൂണിയൻവൽക്കരണം ഒഴിവാക്കാൻ ആഗ്രഹിക്കുമ്പോഴാണ് കൂടാതെ അതിന്റെ ജീവനക്കാർക്ക് ശരിയായ കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നതിനായി യാതൊരു ഭാവവും ഉണ്ടാക്കാത്തപ്പോഴാണ് യൂണിയൻ അടിച്ചമർത്തൽ സമീപനം സൂചിപ്പിക്കുന്നത് യൂണിയൻ രൂപീകരണം തടയാൻ നിങ്ങൾ കഴിയുന്നതെല്ലാം ചെയ്യുന്നതിനെയാണ് കൂടാതെ സംഘടന യൂണിയൻവൽക്കരണത്തെ വളരെയധികം ഭയപ്പെടുന്നു അത് യൂണിയൻ രൂപീകരണം തടയാൻ അതിന്റെ ശക്തിയിലുള്ളതെല്ലാം ചെയ്യുന്നു അതിനാൽ നിങ്ങൾ 5 ൽ കൂടുതൽ ആളുകൾക്ക് ഒരേ സമയം ഒരിടത്ത് ഇരിക്കാൻ കഴിയില്ല 4 ൽ കൂടുതൽ ജീവനക്കാർക്ക് ഒരേ സമയം ഉച്ചഭക്ഷണം കഴിക്കാൻ പുറത്തിറങ്ങാൻ കഴിയില്ല എന്നതുപോലുള്ള നയങ്ങൾ ഇതിന് ഉണ്ടായിരിക്കാം അതിനാൽ നിങ്ങൾ കാര്യങ്ങൾ സ്തംഭിപ്പിക്കുന്നു നിങ്ങൾ ജീവനക്കാർക്ക് അവരുടെ ഓഫീസ് സമയങ്ങളിൽ ഒത്തുചേരാനുള്ള അവസരം നൽകുന്നില്ല കൂടാതെ ധാരാളം ജീവനക്കാർ ഓഫീസ് സമയത്തിന് പുറത്ത് ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അവർക്ക് അവരുടെ കുടുംബ ഉത്തരവാദിത്തങ്ങളുണ്ട് അതിനാൽ നിങ്ങൾ അവരുടെ ഉച്ചഭക്ഷണ സമയം സ്തംഭിപ്പിക്കുന്നു അവർക്ക് നിൽക്കാനും പരസ്പരം സംസാരിക്കാനും കഴിയുന്ന പൊതുവായ ഇടങ്ങൾ നിങ്ങൾക്കില്ല നിങ്ങൾ അവരുടെ ഇ മെയിലുകൾ നിരീക്ഷിക്കുന്നു LAN കണക്ഷനുകൾ നിരീക്ഷിക്കപ്പെടുമെന്ന് നിങ്ങൾ അവരെ അറിയിക്കുന്നു കൂടാതെ ഏതെങ്കിലും യൂണിയൻവൽക്കരണത്തിന്റെ ഏതെങ്കിലും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഒരു സൂചന പോലും ഉടനടി ഒഴിവാക്കപ്പെടുന്നു നിങ്ങൾക്ക് പാർട്ടികളില്ല നിങ്ങൾക്ക് ഒത്തുചേരലുകൾ ഇല്ല നിങ്ങൾക്ക് മീറ്റിംഗുകൾ ഇല്ല അതിനാൽ ആളുകൾക്ക് ഒരുമിച്ചുകൂടാനും സംസാരിക്കാനും അവസരം ലഭിക്കില്ല യൂണിയനുകളുടെ രൂപീകരണം നിർത്താൻ നിങ്ങൾ നിങ്ങളുടെ കഴിവിൽ എല്ലാം ശ്രമിക്കുന്നു അതിനാൽ ഇതിനെ യൂണിയൻ അടിച്ചമർത്തൽ തന്ത്രം എന്ന് വിളിക്കുന്നു ഇപ്പോൾ ഇതിലെ ഒരു വലിയ അപകടസാധ്യത ആളുകൾ അവരുടെ അടിസ്ഥാന അവകാശം അടിസ്ഥാന മനുഷ്യാവകാശം അതായത് സംസാരിക്കുക മറ്റുള്ളവരുമായി ബന്ധപ്പെടുക കൂടാതെ തങ്ങളെപ്പോലെ തന്നെ അഭിപ്രായമുള്ള മറ്റ് സമാന ചിന്താഗതിക്കാരായ വ്യക്തികളുമായി ബന്ധപ്പെടുക തുടങ്ങിയവ അടിച്ചമർത്തപ്പെടുന്നു എന്നെല്ലാം അവർ അറിയുമ്പോൾ അവർ കലാപം നടത്തിയേക്കാം ഈ തന്ത്രത്തിന് തിരിച്ചടിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മറുവശത്ത് യൂണിയൻ സബ്സ്റ്റിറ്റ്യൂഷൻ സ്ട്രാറ്റജി നിങ്ങളുടെ ജീവനക്കാരെ സന്തോഷിപ്പിക്കുന്നതിനും യൂണിയനുകളുടെ രൂപീകരണം ഒഴിവാക്കുന്നതിനുമുള്ള വളരെ നല്ല തന്ത്രമാണ് കാരണം യൂണിയനുകൾ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ചാൽ അത് വളരെ അപൂർവമായ കേസുകളിൽ മാത്രം ആണ് സംഭവിക്കുന്നത് പക്ഷേ അത് സംഭവിച്ചതായി അറിഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ നിയമനടപടികളിലൂടെ വളരെ എളുപ്പത്തിൽ അവരെ അടിച്ചമർത്താൻ കഴിയും പക്ഷേ അല്ലാത്തപക്ഷം നിങ്ങൾ നിങ്ങളുടെ ജീവനക്കാരെ സന്തോഷിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ഒരുമിച്ചുകൂടേണ്ടതിന്റെ ആവശ്യകത അനുഭവപ്പെടില്ല കൂടാതെ അവർ ആസ്വദിക്കുന്ന അവരുടെ ജോലി നിർത്തേണ്ടി വരില്ല സംഘടനയ്ക്കെതിരെ നീങ്ങേണ്ടി വരില്ല അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്കായി വാദിക്കാൻ ഒരു കൂട്ടായ ബോഡിയായി സംഘടനയിലേക്ക് പോകേണ്ടി വരില്ല അവർക്ക് ആസന്നമായ ആവശ്യങ്ങൾ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അവർ ഒരു തരത്തിലും അസംതൃപ്തരല്ലെങ്കിൽ അവർ ഒരു യൂണിയനിൽ പോയി ചേരില്ല തൊഴിൽ ബന്ധ പ്രക്രിയ നിങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് മൂന്ന് വ്യത്യസ്ത രീതികളിലൂടെ നിങ്ങൾക്ക് തൊഴിൽ ബന്ധ പ്രക്രിയ നിയന്ത്രിക്കാൻ കഴിയും യൂണിയൻ ഓർഗനൈസേഷനിലൂടെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും കൂട്ടായ വിലപേശലിലൂടെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും കൂടാതെ കരാർ ഭരണത്തിലൂടെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും അടുത്ത പ്രഭാഷണത്തിൽ ഇവ മൂന്നും നമ്മൾ കൈകാര്യം ചെയ്യും നന്ദി